ഇപ്പോൾ നമുക്ക് നാലുതരം കൺട്രോൾ സോഴ്സുകളും ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ടത് എങ്ങനെ എന്ന് അറിയാം MOS ട്രാൻസിസ്റ്റർ സ്വയം ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ആണ് പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻറ് ട്രാൻസ് കണ്ടക്ടൻസ് gm ആണ് ഈ കൺട്രോൾ സോഴ്സസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച gm ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ കൺട്രോൾ സോഴ്സസ് എല്ലാം ഐഡിയൽ ആയാണ് പെരുമാറുന്നത് ഇനി ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് എങ്ങനെ അതുപോലുള്ള കൺട്രോൾ സോഴ്സസ് നിർമ്മിക്കാം എന്നു കാണാം MOS ട്രാൻസിസ്റ്റർ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ആണ് കറൻറ് gm VGS ആണ് VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് ഇനി വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ്റ് സോഴ്സിനു പകരം നമുക്ക് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് ഉണ്ടായിരുന്നത് എന്ന് കരുതുക മോഡൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ 2 ടെർമിനൽസിൻറെ ഇടയിൽ വോൾട്ടേജ് Vd ഉണ്ടായിരിക്കും ഇവയെ ഞാൻ പ്ലസ് മൈനസ് എന്നിങ്ങനെ വിളിക്കുന്നു കൺട്രോൾ സോഴ്സിൻറെ ഒരു ഭാഗം ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റേ ഭാഗമാണ് ഔട്ട്പുട്ട് ഇത് ചില നിബന്ധനകൾ ഉള്ള വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് ഈയൊരു ഭാഗം ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയവയാണവ അതിനാൽ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതിനു പകരം ഈ അടിസ്ഥാനപരമായ ഉപകരണം ഉപയോഗിക്കാൻ ശ്രമിക്കാം അതുവഴി കൺട്രോൾ സോഴ്സസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നടപ്പിലാക്കാം അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നിവ നടപ്പിലാക്കാം നേരത്തെ തന്നെ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഉള്ളപ്പോൾ നാം എന്തിനാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നടപ്പിലാക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം MOS ട്രാൻസിസ്റ്റർ സ്വയമൊരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയിരിക്കെ എന്തിനാണോ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് നിർമ്മിച്ചത് ഇതും അതുപോലെ തന്നെയാണ് ഇവിടത്തെ ആശയം എന്തെന്നാൽ ഒരു ആക്ടീവ് സെമികണ്ടക്ടർ ഉപകരണത്തിൻറെ പാരമീറ്റർ ആയ ട്രാൻസിസ്റ്ററിൻറെ gm പിന്തുടരുക എന്നതായിരുന്നു ഇത് താപനിലയോടൊപ്പം ഗണ്യമായി വ്യത്യാസപ്പെടുന്നു ഒരു MOS ട്രാൻസിസ്റ്ററിൽ നിന്നും മറ്റൊരു MOS ട്രാൻസിസ്റ്ററിലേക്ക് ഇത് വ്യത്യാസപ്പെടുന്നു അതേസമയം ആദ്യം ഇത് ഉപയോഗിച്ച് നിർമ്മിച്ച വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സിലെ ട്രാൻസ് കണ്ടക്ടൻസ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് കൂടുതൽ കൃത്യതയുള്ള റെസിസ്റ്റൻസ് കൊണ്ടാണ് അതുപോലെ ഇത് സെമികണ്ടക്ടർ ഉപകരണം കൊണ്ട് റിയലൈസ് ചെയ്തത് കൊണ്ട് ഇത് വളരെയധികം വ്യത്യാസപ്പെടാം ഗെയിൻ സെമികണ്ടക്ടർ ഉപകരണം കൊണ്ടല്ലാതെ പകരം ഒരു റെസിസ്റ്റർ പോലെ ഉള്ള ഉപകരണം കൊണ്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് അത് ചെയ്യാൻ ശ്രമിക്കാം ഇത് ഇതിൽ കൂടുതൽ നിഗൂഢമാക്കാൻ ഞാൻ താത്പര്യപ്പെടുന്നില്ല ഇത് വളരെ പ്രശസ്തമായ ഉപകരണമായ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അഥവാ ഓപ് ആംപ് എന്ന ഉപകരണത്തിൻറെ മോഡൽ ആണ് എന്ന് നിങ്ങൾക്കറിയാം ഇതാണ് ഔട്ട്പുട്ട് ഇതാണ് പ്ലസ് ടെർമിനൽ ഇതാണ് മൈനസ് ടെർമിനൽ ഞാൻ പറയുന്നത് നാം വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് എന്നിവ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഉള്ള ഒപാംപ് ഉപയോഗിച്ച് നിർവഹിക്കാം എന്നാണ് ആദ്യം വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എടുക്കാം ഔട്ട്പുട്ട് വോൾട്ടേജ് Vo എന്നത് k പ്രാവശ്യം ഇൻപുട്ട് വോൾട്ടേജിന് തുല്യമായിരിക്കണം k എന്നത് ഗെയിൻ ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ചില എറർ നിർവ്വചിക്കേണ്ടതുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ട് മുകളിലേക്കോ താഴേക്കോ ഡ്രൈവ് ചെയ്യാം ഇനി ഒപാംപ് എന്താണ് ചെയ്യുന്നത് ഈ വോൾട്ടേജ് Vd ആണ് ഔട്ട്പുട്ട് AoVd ആണ് അതിനാൽ ഈ വോൾട്ടേജ് ചെറുതാണെങ്കിലോ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആയാലോ ഇത് ഔട്ട്പുട്ടിനെയും നെഗറ്റീവിലേക്ക് ഡ്രൈവ് ചെയ്യും ഇൻപുട്ട് വോൾട്ടേജ് വലുതാണെങ്കിൽ ഇത് ഔട്ട്പുട്ടിനെ വലിയ പോസിറ്റീവ് വാല്യൂസിലേക്ക് ഡ്രൈവ് ചെയ്യും നാം ചെയ്യേണ്ടത് എന്തെന്നാൽ നമുക്ക് ആവശ്യമുള്ള വാല്യുവിനും യഥാർത്ഥത്തിലുള്ള വാല്യുവിനും ഇടയിൽ ഒരു എറർ നിർവ്വചിക്കേണ്ടതുണ്ട് ഇത് ഔട്ട്പുട്ട് ആവശ്യമുള്ള വാല്യുവിലേക്ക് ഡ്രൈവ് ചെയ്യാൻ തക്ക രീതിയിൽ ഒപാംപിൻറെ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യണം അതിനാൽ എറർ എന്താണ് ആവശ്യമുള്ള ക്വാണ്ടിറ്റിസ് kVi ആണ് യഥാർത്ഥ ക്വാണ്ടിറ്റിസ് Vo ആണ് അതിനാൽ എറർ kVi Vo ആണെന്ന് നിർവചിക്കാം അതാണ് ഒപാംപ് ഇൻപുട്ട് വോൾട്ടേജ് ഒപാംപ് ഇൻപുട്ട് വോൾട്ടേജും ആയി റിയാക്റ്റ് ചെയ്യുന്നു അതിനാൽ ഇതിൻറെ ഇൻപുട്ട് വോൾട്ടേജ് എററുമായി ബന്ധപ്പെട്ടിരിക്കണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് kVi എവിടെ നിന്ന് ലഭിക്കും ഇതാണ് നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത് kVi നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നാം ഈ ആംപ്ലിഫയർ നിർമ്മിക്കാൻ ശ്രമിക്കുമായിരുന്നില്ല പക്ഷേ ഇതേ വിവരം ഈ മുഴുവൻ ക്വാണ്ടിറ്റിയേയും k കൊണ്ട് ഹരിച്ചാൽ ലഭിക്കും അതിനാൽ ഈ എറർ Vi Vo k എന്ന് പുനർനിർവചിക്കാം ഔട്ട്പുട്ട് വോൾട്ടേജ് ആവശ്യം ഉള്ളതിനേക്കാൾ കുറവാണെങ്കിൽ എറർ പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇവിടെ നിന്ന് വ്യക്തമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആവശ്യം ഉള്ളതിനേക്കാൾ കൂടുതലാണെങ്കിൽ എറർ നെഗറ്റീവ് ആയിരിക്കും ഇനി ഇത് കുഴപ്പമില്ല നമുക്ക് kVi ആവശ്യമില്ല നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് Vi മാത്രമാണ് ആവശ്യം ഇത് നമുക്ക് ലഭ്യമാണ് ഇനി സംഭവിക്കേണ്ടത് എന്തെന്നാൽ Vi Vo k പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിക്കണം Vi Vo k നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് കുറയണം ഒപാംപ് ചെയ്യുന്നത് എന്തെന്നാൽ Vd പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് വലുതും പോസിറ്റീവും ആയിരിക്കും Vd എത്ര കൂടുതൽ പോസിറ്റീവ് ആകുന്നുവോ ഔട്ട്പുട്ട് വോൾട്ടേജ് അത്രതന്നെ വലുതായിരിക്കും Vd യുടെ നെഗറ്റീവ് വാല്യൂസ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ വലിയ നെഗറ്റീവ് വാല്യൂസിലേക്ക് കുറയ്ക്കും അതായത് Vi Vo k എന്നത് ഒപാംപിൻറെ വോൾട്ടേജിൻറെയും ഇൻപുട്ട് വോൾട്ടേജിൻറെയും വ്യത്യാസം ആയിരിക്കണം ഇത് നടപ്പിലാക്കാൻ നമുക്ക് Vo k ആവശ്യമാണ് ഇവിടെ k ഒന്നിൽ കൂടുതൽ ആയിരിക്കണം കാരണം ഇത് ഒരു ആംപ്ലിഫയർ ആണ് ഇത് ലഭിക്കാൻ എളുപ്പമാണ് Vo k എങ്ങനെ ലഭിക്കും ഇവിടെ Vo ഉണ്ടെന്ന് കരുതാം R R എന്നിവ ഉപയോഗിച്ചുള്ള റസിസ്റ്റീവ് ഡിവൈഡർ കൊണ്ട് Vo k ലഭിക്കും ഇത് Vo k തരുന്നു ഇൻപുട്ട് സോഴ്സ് ഇവിടെയുണ്ട് ഒപാംപിന് 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട് Vi അതിലൊന്നുമായും Vo k മറ്റേതുമായും ബന്ധിപ്പിച്ചാൽ നമുക്ക് Vi Vo k ലഭിക്കും ഇത് ശരിയായ ദിശയിൽ ആണെന്ന് കരുതാം Vi ആണ് Vo k എന്നതിനേക്കാൾ കൂടുതലെങ്കിൽ ഈ പോസിറ്റീവ് വാല്യൂ ഒപാംപിൻറെ ഔട്ട്പുട്ടിനെ ഡ്രൈവ് അപ്പ് ചെയ്യും അതുപോലെ Vi ആണ് Vo k എന്നതിനേക്കാൾ കുറവെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ളതുപോലെ കൃത്യമായി ഈ നെഗറ്റീവ് വാല്യൂ ഒപാംപിൻറെ ഔട്ട്പുട്ടിനെ ഡ്രൈവ് ഡൌൺ ചെയ്യും അതിനാൽ ഒപാംപിൻറെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് മോഡൽ ഉപയോഗിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താകുമെന്ന് നമുക്ക് നോക്കാം ഇത് Vd ആണ് ഒപാംപിൻറെ മോഡൽ AoVd ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ Vo എന്നത് AoVd ആണ് അഥവാ Vd എന്നത് Vo Ao ആണ് അതിനാൽ ഇവിടെയുള്ള നമ്പർ Vo Ao ആണ് ഇനി ഞാൻ ചെയ്യേണ്ടത് ഒരു സമവാക്യം എഴുതുക എന്നതാണ് ഈ വോൾട്ടേജ് Vi ആണ് ഈ വോൾട്ടേജ് VoAo ആണ് ഈ വോൾട്ടേജ് Vok ആണ് അതിനാൽ Vi Vo Ao Vo k അതുകൊണ്ട് Vo Vi 1 1 Ao 1 k എന്ന് എളുപ്പത്തിൽ കാണാൻ സാധിക്കും ഇത് k 1 k Ao എന്നും അല്ലെങ്കിൽ Ao 1 Ao k എന്നും ഒക്കെ എഴുതാവുന്നതാണ് ഒപാംപ് സർക്യൂട്ട് നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ ഈ രൂപങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഈ രൂപം ആണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഡിസയേർഡ് ഗെയിൻ ആയ k ന്യൂമറേറ്ററിൽ ഉണ്ട് ഡിനോമിനേറ്ററിൽ വേറെ ചിലതുണ്ട് ഡിനോമിനേറ്റർ ഒന്നിനെ സമീപിക്കുമ്പോൾ k Ao എന്നത് പൂജ്യത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ Ao ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ Aok വളരെ വലുതാണെങ്കിൽ VoVi ഏതാണ്ട് k ആണ് ഈ ഒപാംപ് ഉപയോഗിച്ചുള്ള സർക്യൂട്ട് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയി മോഡൽ ചെയ്തതാണ് അതിനാലാണ് ഇത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു റസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം ഇൻപുട്ട് ഡിവൈഡഡ് വോൾട്ടേജിനോട് താരതമ്യം ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഈ താരതമ്യത്തിൻറെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവ് ചെയ്യപ്പെടുന്നത് ഇതാണ് Vd ഇതാണ് Vi ഒപാംപ് ഗെയിൻ Ao ആണെങ്കിൽ അതായത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിന് അകത്തുള്ള ഒപാംപ് ഗെയിൻ Ao ആണെങ്കിൽ VoVi സമം k1 k Ao ആയിരിക്കും Aok 1 ആണെങ്കിൽ ഇത് ഏകദേശം k ആയിരിക്കും പ്രധാനമായും ഒപാംപിൻറെ ഗെയിൻ വളരെ വളരെ വലുതായിരിക്കണം ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കാം ഇത് ഞാൻ പെട്ടെന്ന് നോക്കാം കാരണം ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലുള്ള വിഷയങ്ങളിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിൽ ഈ ലക്ച്ചറുകൾ എടുത്ത് ഓർമ്മ പുതുക്കാവുന്നതാണ് പ്രധാന ആശയം എന്തെന്നാൽ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ നെഗറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഒരു ഒപാംപ് ഉപയോഗിച്ച് നിർമ്മിക്കാം എന്നതാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു ചെറിയ അളവിൽ Ao മാറിയാലും ഒരു ഉദാഹരണമെടുക്കാം k10 Ao1000 അങ്ങനെയെങ്കിൽ Vo Vi എന്നത് 10 1 10 1000 ആയിരിക്കും ഇത് ഏകദേശം 100 99 അഥവാ 9 9 ആയിരിക്കും Ao 2000 ആണെന്ന് കരുതുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് 1000 എന്നതിനുപകരം ഇവിടെ 2000 ആണുള്ളത് 99 എന്നതിനുപകരം 0 9995 എന്ന് ലഭിക്കും അപ്പോൾ ഗെയിൻ 9 95 എന്ന് ലഭിക്കുന്നു ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻറെ പ്രയോജനം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് സ്വയം ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയ ഒപാംപ് ഉപയോഗിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് കണ്ട്രോൾ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നിർമ്മിച്ചത് എന്ന് കാരണം ഇതാണ് ഒപാംപിൻറെ പാരമീറ്റർ ആയ ഗെയിൻ വളരെയധികം വ്യത്യാസപ്പെടും ഇത് രണ്ടു മടങ്ങായി വ്യത്യാസപ്പെടാം പക്ഷേ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ ക്ലോസ്ഡ് ലൂപ് റേഷ്യോ VoVi 9 9 എന്നതിൽനിന്നും 9 95 എന്നതിലേക്ക് വളരെ കുറച്ച് ആയി മാറുന്നു എന്ന് കാണാം അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് ആംപ്ലിഫയർ പാരമീറ്റർസിൻറെ വളരെ ചെറിയ രീതിയിലുള്ള സെൻസിറ്റിവിറ്റി മാത്രമേയുള്ളൂ എന്ന് കാണാം ആംപ്ലിഫയർ പാരമീറ്റർസ് വളരെയേറെ അധികം വ്യത്യാസപ്പെടാം എന്നും കാണാൻ സാധിക്കും കാരണം അവ സെമികണ്ടക്ടർ ഉപകരണങ്ങളെ ആശ്രയിച്ചുള്ളതാണ് അതിനാൽ ഇവ നിങ്ങൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചാൽ വളരെ നിയന്ത്രിതമായ പാരമീറ്റർസ് ലഭ്യമാകും എന്ന് സാരം ഇതാണ് ഒപാംപ് ഉപയോഗിച്ചുകൊണ്ടുള്ള വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്